ഹലോ എവെരിവൺ ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിൽഡ് ബാക് ബെറ്റർ ലെക്ചർ സീരീസിലേക്ക് സ്വാഗതം മുൻ പ്രഭാഷണത്തിലെ ദുരന്ത നിവാരണത്തെക്കുറിച്ചും വിവരങ്ങളുടെ പങ്കിനെക്കുറിച്ചുമാണ് ഞാൻ സംസാരിക്കുന്നത് ഈ പ്രഭാഷണത്തിൽ ദുരന്ത നിവാരണത്തിന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് സോഷ്യൽ നെറ്റ്വർക്കുകളുടെ പങ്ക് എന്താണെന്ന് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതിനാൽ ദുരന്ത നിവാരണ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള നിർണായക വിവരങ്ങൾ ശേഖരിക്കുന്നതിനും നമ്മുടെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നതിനും സോഷ്യൽ നെറ്റ്വർക്കുകളുടെ പങ്ക് എന്താണ് അതിനായി കേസ് സ്റ്റഡി ആശയം ലഭിക്കുന്നതിന് ഞാൻ മുമ്പത്തെ പ്രഭാഷണത്തെ കുറച്ച് ആശ്രയിക്കും നിങ്ങൾ ബംഗ്ലാദേശ് ഒന്ന് ഓർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഞങ്ങൾ പറഞ്ഞു ഇതൊരു മനോഹരമായ രാജ്യമാണ് അവർ കുടിവെള്ള അപകടവുമായി പൊരുതുന്നു കാരണം അവർക്ക് ആഴ്സനിക് വെള്ളം കുടിക്കാൻ കഴിയില്ല ഭൂഗർഭജലം ആഴ്സനിക് മലിനമായതിനാൽ മറുവശത്ത് അവർക്ക് ജല ലവണാംശത്തിന്റെ പ്രശ്നമുണ്ട് അത് അവർക്ക് കുടിക്കാൻ കഴിയില്ല ഉപ്പുരസമുള്ളതിനാൽ അവർക്ക് ജലജന്യ ആരോഗ്യ രോഗങ്ങൾ അതിസാരം വയറിളക്കം കോളറ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിനാൽ ബംഗ്ലാദേശിന്റെ തീരപ്രദേശങ്ങളിൽ അവർക്ക് ധാരാളം വെള്ളമുണ്ട് അവർക്ക് വെള്ളത്തിന്റെ പ്രശ്നമില്ല പക്ഷേ അവർക്ക് കുടിക്കാൻ കഴിയാത്തതാണ് പ്രശ്നം ഇത് ഒരു പോർട്ടബിൾ വെള്ളമല്ല ശരി അതിനാൽ സാധ്യമായ ഒരു ആശയം ശേഖരിക്കുക എന്നതാണ് ഞങ്ങളുടെ വെല്ലുവിളി ടെക്നോളജി ഇന്നൊവേഷൻ എന്നിവ ഉപയോഗപ്പെടുത്തി മഴവെള്ളം ശേഖരിക്കാം എന്നതാണ് ഗാർഹിക തലത്തിൽ നമുക്ക് മഴവെള്ളം വീട്ടുതലത്തിൽ മേൽക്കൂരയിൽ നിന്നും ശേഖരിച്ച് ഒരു ടാങ്കിൽ സൂക്ഷിക്കാം 5000 ലിറ്ററിന്റെ ആ ടാങ്ക് 5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് 6 മാസത്തെ വരണ്ട കാലത്തേക്ക് എളുപ്പത്തിൽ കുടിവെള്ളം നൽകാം ചെറിയ നൂതന ആശയം എന്നാൽ ബംഗ്ലാദേശിൽ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അതോറിറ്റി എന്ന നിലയിൽ ഒരു ഡിസാസ്റ്റർ മാനേജർ എന്ന നിലയിൽ ഒരു പ്ലാനർ എന്ന നിലയിലുള്ള ഞങ്ങളുടെ വെല്ലുവിളി അതാണ് അതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഇത് 1 മാത്രമല്ല 3 മാത്രമല്ല ഒരു വലിയ സംഖ്യയും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് വലിയ സംഖ്യ ഭീമാകാരമായ സംഖ്യ ഒന്നിനുപുറകെ ഒന്നായി അങ്ങനെ ദശലക്ഷക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കണം ഈ മഴവെള്ള സംഭരണി സ്ഥാപിക്കണം അത് നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത നമ്മുടെ വെല്ലുവിളിയാണ് അതിനാൽ ധാരാളം ചെറിയ ശക്തികൾ ഒരുമിച്ച് ചേർക്കുന്നത് നമ്മുടെ പ്രചോദനമായ വലിയ ശക്തിയെ കൂട്ടിച്ചേർക്കുന്നു ആളുകളോട് അഡോപ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ മഴവെള്ള സംഭരണി പോലുള്ള ചെറിയ നൂതന ആശയങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് ഞങ്ങളുടെ ഗവേഷണ പ്രശ്നമെന്ന് ഞങ്ങൾ ഇതിനകം ചർച്ച ചെയ്തു ആളുകൾ തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല ഇതൊരു നൂതന ആശയമാണ് ഇത് പുതിയതാണ് അതിനാൽ ആളുകൾ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു അവർക്ക് 3 തരത്തിലുള്ള വിവരങ്ങൾ ആവശ്യമാണ് ഒരാൾ സ്വന്തം അറിവ് വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കേൾവിയിൽ നിന്നും നിരീക്ഷണത്തിൽ നിന്നുമുള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ അറിവ് മറ്റൊന്ന് ചർച്ചകളുടെ അറിവാണ് ഒരാളുടെ സബ്ജെക്റ്റീവ് നോളഡ്ജ് ഒരാളുടെ സബ്ജെക്റ്റീവ് ഒപീനിയൻ എന്താണെന്ന് ഞങ്ങൾ ഇതിനകം ചർച്ച ചെയ്തു ഇത്തരത്തിലുള്ള പുതുമകളെക്കുറിച്ചുള്ള വ്യക്തിപരമായ അഭിപ്രായം അതിനാൽ അവർക്കും ഇത് ആവശ്യമാണ് അതിനാൽ 3 തരത്തിലുള്ള വിവരങ്ങൾ അവയ്ക്ക് ഉൾപ്പെടാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് കേൾക്കുന്നത് ടാങ്കിനെക്കുറിച്ചോ നൂതനത്വങ്ങളെക്കുറിച്ചോ അതിന്റെ സോഫ്റ്റ്വെയർ പരിജ്ഞാനം ശേഖരിക്കുന്നതിനാണ് അതിന്റെ പ്രവർത്തനം അതിന്റെ പ്രയോജനങ്ങൾ ഫലപ്രാപ്തി മറ്റൊന്ന് ഹാർഡ്വെയർ വിവരങ്ങൾ ശേഖരിക്കുന്നത് പോലെയുള്ള നിരീക്ഷണ പ്രവർത്തനമാണ് ആ ടാങ്കിന്റെ ആകൃതിയും വലിപ്പവും ഘടനയുമാണ് അതിനാൽ ഒരു നിരീക്ഷണം കേൾക്കുന്നത് ഈ അറിവ് വ്യക്തിക്ക് നൽകും എന്നാൽ ഇത് അഡോപ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിക്കില്ലെന്ന് ഞാൻ പറഞ്ഞതുപോലെ ആളുകൾക്ക് വ്യക്തിനിഷ്ഠമായ വീക്ഷണം ഡാറ്റയുടെ വ്യക്തിഗത വ്യാഖ്യാനങ്ങൾ സന്ദർഭത്തിന്റെ സാഹചര്യം എന്നിവ അറിയാൻ താൽപ്പര്യമുണ്ട് അതിനാൽ ഈ ടാങ്ക് അവരെ എങ്ങനെ സഹായിക്കും അവരുമായി ചില ചർച്ചകളും അറിയേണ്ടതുണ്ട് അവരുടെ സഹ പങ്കാളികൾ അതിനാൽ ഇതിനെ ഞങ്ങൾ ചർച്ചകളുടെ വിവരങ്ങൾ വിവരങ്ങളുടെ തരം നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നു ഇപ്പോൾ അവർ എന്താണ് ചെയ്യുന്നത് അവർ ഈ വിവരങ്ങൾ എങ്ങനെ ശേഖരിക്കും അവർക്ക് സോഷ്യൽ നെറ്റ്വർക്കുകൾ ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ സങ്കൽപ്പിക്കുക അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ബോൾ പേന വാങ്ങാൻ ആവശ്യപ്പെടുന്നു ഒരു ബോൾ പേന വാങ്ങാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു പക്ഷേ നിങ്ങൾക്ക് ഈ ബോൾ പേനയെക്കുറിച്ച് അറിയില്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഈ ബോൾ പേനയെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ തീരുമാനമെടുക്കും അല്ലേ ഈ ബോൾ പേനയെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് ശരിക്കും അറിയില്ല അതിനാൽ ടൈം 2 ൽ ഞാൻ എന്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു ഹേയ് നിങ്ങൾക്ക് ഈ ബോൾ പേനയെക്കുറിച്ച് അറിയാമോ എന്തെങ്കിലും ആശയം നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ബോൾ പേന ഉപയോഗിച്ചിട്ടുണ്ടോ ഇത് അമേരിക്കയിൽ നിന്നോ മറ്റെവിടെയെങ്കിലും നിന്നോ പുതിയതായി വന്നതിനാൽ ഇത് എന്റെ സ്ഥലത്തു ലഭ്യമല്ല അവൻ പറഞ്ഞു ഹേയ് എനിക്കറിയില്ല മോനേ എനിക്കറിയില്ല ടൈം 3 ൽ അവൻ തന്റെ നെറ്റ്വർക്ക് വിപുലീകരിച്ചു അവൻ ആരോടെക്കെയോ ചോദിച്ചു അവർ പുതിയ ബോൾ പേന ഉപയോഗിക്കൂ എന്ന് പറഞ്ഞു ഇത് വളരെ നല്ലതാണ് അപ്പോൾ ആരോ പറയുന്നു ഇത് നന്നായി ഉപയോഗിക്കുക സുഹൃത്തേ മറ്റൊരാൾ പറയുന്നു യുഎസിലുള്ള എന്റെ കസിൻ നല്ലത് എന്ന് പറഞ്ഞു മറ്റൊരാൾ പറഞ്ഞത് ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് അതുകൊണ്ട് ഞാൻ പുതിയത് പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതിനാൽ അത് ഇപ്പോൾ നിരുത്സാഹപ്പെടുത്തുന്നു അതിനാൽ ടൈം 4 ൽ അയാൾക്ക് കൂടുതൽ കൂടുതൽ നെറ്റ്വർക്കുകൾ ഉണ്ടായിരിക്കാം കൂടുതൽ കൂടുതൽ വിവരങ്ങൾ കൂടുതൽ കൂടുതൽ ആളുകളോട് അങ്ങനെ ചോദിക്കുന്നു തുടർന്ന് അദ്ദേഹം ഇതിനെക്കുറിച്ച് നല്ലതോ ചീത്തയോ ആയ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ മിക്ക ആളുകളും ഒരു നല്ല അവലോകനം നൽകുന്നു ഒരു നല്ല അവലോകനം ശരി അവ വളരെ സ്മൂത്ത് ആണ് നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഇത് ഉപയോഗിക്കുക അതിനാൽ ചിലർ മോശമാണെന്ന് പറയുന്നു ചിലർ ഇത് നല്ലതാണെന്നും നല്ലതാണെന്നും വിലകുറഞ്ഞതും ഉപയോഗപ്രദവുമാണെന്നും പറയുന്നു അതിനാൽ ഈ വിവരങ്ങൾ ഉപയോഗിച്ച് പലരും യഥാർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു അവയുടെ നിറം എന്താണ് അവ എങ്ങനെ കാണപ്പെടുന്നു അത് എങ്ങനെ പ്രവർത്തിക്കുന്നു അവൻ തന്റെ നെറ്റ്വർക്കിലേക്ക് വിവരങ്ങൾ ലഭിക്കുന്നു അത് അവനെ പൊരുത്തപ്പെടുത്താനും വാങ്ങാനും ശരിക്കും സഹായിച്ചു അത് ഉപയോഗിക്കുന്നതിലൂടെയും വിവരങ്ങൾ ശേഖരിക്കുന്നതിലൂടെയും അവൻ തന്റെ അനിശ്ചിതത്വത്തിന്റെ അളവ് കുറയ്ക്കുന്നു ഇപ്പോൾ അവൻ അത് ഉപയോഗിക്കുന്നു ഇത് പ്രവർത്തിക്കുമോ ഇല്ലയോ എന്ന അനിശ്ചിതത്വം അദ്ദേഹം ശരിക്കും കുറച്ചു സോഷ്യൽ നെറ്റ്വർക്കുകൾക്ക് ഈ രീതിയിൽ സഹായിക്കാനാകും തൽഫലമായി ഇത്തരത്തിലുള്ള നൂതന ആശയങ്ങളും ദുരന്തങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സാങ്കേതികവിദ്യകളും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഇതിനെ പ്രതിരോധ സാങ്കേതികവിദ്യകൾ അപകടസാധ്യത തടയുന്നതിനുള്ള നടപടികൾ പ്രതിരോധ നടപടികൾ എന്നിങ്ങനെ വിളിക്കുന്നു ആളുകൾ പരസ്പരം വിവരങ്ങൾ പങ്കിടുന്നത് കേൾക്കുന്നതിലൂടെയോ ഒന്നുകിൽ കാണുന്നതിലൂടെയോ ഒന്നുകിൽ ചർച്ചകളിലൂടെയോ ഒന്നുകിൽ ഫോൺ കോളുകളിലൂടെയോ ഒന്നുകിൽ ബഹുജനമാധ്യമങ്ങളിലൂടെയോ സംഭാഷണത്തിലൂടെയോ പ്രസംഗത്തിലൂടെയോ ഇന്നോവേഷൻ നവീകരണത്തിന്റെ വ്യാപനം സാങ്കേതികവിദ്യകളുടെ വ്യാപനം എന്നിവയെ ഇൻഫർമേഷൻ സീക്കിങ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഡെവലൊപ്മെന്റ് ഓർ ആക്ടിവിറ്റി ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഇൻഫർമേഷൻ സീക്കിങ് ഡെവലൊപ്മെന്റ് ഓർ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നു അതിനാൽ പക്ഷേ ചോദ്യം ഇതാണ് എനിക്ക് 3 തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യമാണ് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഉൾപ്പെട്ട പ്രവർത്തനങ്ങൾ ഹിയറിങ് ഒബ്സെർവഷൻ ഡിസ്കഷന്സ് ഇപ്പോൾ ആരായിരിക്കും എന്റെ വിവരങ്ങളുടെ ഉറവിടം വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഞാൻ എവിടെ പോകണം എന്റെ അയൽക്കാരൻ എന്റെ സഹപ്രവർത്തകർ എന്റെ ബന്ധുക്കൾ എന്റെ സുഹൃത്തുക്കൾ എനിക്ക് അറിയാത്തവർ എന്റെ എതിരാളികൾ ഞാൻ ആരെ കാണണം എനിക്ക് ഈ ബോൾ പേന വാങ്ങണമെങ്കിൽ ലളിതമായ ബോൾ പേന ഞാൻ ആരെയാണ് ആശ്രയിക്കേണ്ടത് എന്റെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെപ്പോലെ നേരിട്ടുള്ളതും വ്യക്തിപരവുമായ ബന്ധങ്ങളാണെന്ന് വാലന്റൈൻ പറയുന്നത് പോലെ ഇവിടെ പൊതുവെ ഒരു കാഴ്ചയുണ്ട് എനിക്ക് അവരുമായി മുഖാമുഖം ഇടപഴകുന്നു എന്റെ ബന്ധം നേരിട്ട് വ്യക്തിപരമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അയൽക്കാരെപ്പോലെ ആയിരിക്കാം അവരും എന്റെ പേർസണൽ കണക്ടറാണ് ആളുകൾ അവന്റെ കണ്ടെത്തൽ അനുസരിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് അവരെ ആശ്രയിച്ചിരിക്കുന്നു ഗ്രാനോവെറ്റർ അവൻ ശരിക്കും ഇല്ല എന്ന് പറയുന്നു അവ ശരിക്കും പ്രവർത്തിക്കാത്ത നേരിട്ടുള്ള നെറ്റ്വർക്കുകൾ ഇത് യഥാർത്ഥത്തിൽ അനാവശ്യമായ വിവരങ്ങളും അതേ വിവരങ്ങളും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നൽകുന്നു കാരണം നിങ്ങൾ നെറ്റ്വർക്കുകൾ വികസിപ്പിക്കുന്നില്ല നിങ്ങളുടെ നെറ്റ്വർക്കുകൾ വികസിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പുതിയ ആശയങ്ങൾ പുതിയ വിലയിരുത്തൽ ലഭിക്കും പുതിയ അവലോകനങ്ങൾ കാരണം നിങ്ങൾ എല്ലായ്പ്പോഴും ഒന്നിൽ തന്നെയാണ് അതിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ശേഖരിക്കുകയും നിങ്ങളുടെ വീക്ക് നെറ്റ്വർക്കുകൾ ഇൻഡയറക്റ്റ് നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെയോ സുഹൃത്തുക്കളെയോ സുഹൃത്തുക്കളെയോ സുഹൃത്തുക്കളെയോ അറിയില്ലായിരിക്കാം നിങ്ങൾ ഐഐടി റൂർക്കിയിലാണ് ഐഐടി റൂർക്കിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപയോഗപ്രദമായ വിവരങ്ങൾ നിങ്ങൾ ഐഐടി മദ്രാസിൽ നിന്ന് ശേഖരിക്കുന്നു അല്ലേ അതിനാൽ എനിക്ക് ഏതൊക്കെ വിവരങ്ങളാണ് ലഭിക്കേണ്ടത് എവിടെ നിന്ന് ഒന്നുകിൽ അത് പേർസണൽ ആണ് അത് ഇൻഡയറക്റ്റ് ആയിരിക്കാം മറ്റൊന്ന് ബാർഡ് ആണ് സഹപ്രവർത്തകരും സഹ വിദ്യാർത്ഥികളും എന്നർത്ഥം വരുന്ന ഘടനയിൽ സമാനമായ സ്ഥാനം എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനർത്ഥം അത് നേരിട്ടുള്ള ബന്ധം ആയിരിക്കണമെന്നില്ല എന്നാൽ ആളുകൾ പൊതുവെ അവർ മത്സരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു അവർക്ക് നിങ്ങൾക്കറിയാവുന്ന അതേ തരത്തിലുള്ള സ്ഥാനങ്ങളുണ്ട് അവർ കണക്കാക്കുന്നു പരിശോധിക്കുന്നു ക്രോസ് ചെക്ക് ഇത് ശരിയാണോ ഓ അദ്ദേഹത്തിന് ഈ ഐഫോൺ ഇല്ലായിരുന്നു എനിക്ക് ഈ ഐഫോൺ ഉണ്ടായിരിക്കണം അദ്ദേഹത്തിന് ഈ ദുരന്ത പ്രതിരോധ സാങ്കേതികവിദ്യ ഇല്ലായിരുന്നു എനിക്ക് എന്റെ നില ഉയർത്തണം അല്ലെങ്കിൽ ഒരുതരം മത്സരമാണ് അതിനാൽ ഞാൻ അവനെ നിരീക്ഷിക്കുന്നു അല്ലെങ്കിൽ അയൽപക്കം പോലെയുള്ള സ്ഥലപരമായ അളവുകൾ ഇതും പ്രധാനമാണ് ആരെങ്കിലും എന്റെ അടുത്ത് പ്രത്യേകിച്ചും അത് സഹായിക്കും ഇവിടെ ഞങ്ങൾ 3 തരത്തിലുള്ള ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ആളുകൾക്കുള്ള വിവര സ്രോതസ്സ് പരിഗണിക്കുന്നു ഒന്ന് ടൈയുടെ ഡിഗ്രിയും ആവൃത്തിയും അനുസരിച്ചുള്ള യോജിച്ച ഗ്രൂപ്പുകളാണ് അല്ലെങ്കിൽ അങ്ങനെ നൽകിയിട്ടുള്ള ഇടപെടലുകൾ ശരിയാണ് അതിനാൽ നിങ്ങൾ എങ്ങനെയാണ് ഏകീകൃത ഗ്രൂപ്പുകൾ തീരുമാനിക്കുന്നത് ഒരു ഗ്രൂപ്പിലെ വ്യക്തികൾ എത്ര കൂടെക്കൂടെ ബന്ധപ്പെടുന്നു എന്നത് ഒരു കാര്യമാണ് ഇതൊരു സമൂഹമാണ് ഇത് ഒരു സമൂഹമാണ് ഇത് പൂർണ്ണമായും ഒരു കമ്മ്യൂണിറ്റിയാണെന്ന് നമുക്ക് സങ്കൽപ്പിക്കാം ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വ്യത്യസ്ത നെറ്റ്വർക്കുകൾ ഉണ്ട് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ABCD അവയ്ക്ക് പരസ്പരം നേരിട്ടുള്ളതും പരസ്പരബന്ധിതവുമായ പരസ്പര ബന്ധമുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും അമ്പുകൾ ബന്ധനങ്ങളാണ് ഇത് ഒരു ഗ്രൂപ്പാണ് കാരണം അവ ഏറ്റവും സാന്ദ്രമാണ് അതിനാൽ സി എബിഡിയുടേതാണ് കാരണം അദ്ദേഹത്തിന് ഇവിടെ കൂടുതൽ നെറ്റ്വർക്ക് ഉണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിന് ഞാനുമായി പരോക്ഷമോ വൺവേ ദിശയോ ഉള്ള ചില കണക്ഷനുകൾ ഉണ്ട് പക്ഷേ അവൻ അവിടെ ഉൾപ്പെടുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് 2 ഉം ഗ്രൂപ്പ് 3 ഉം ഉണ്ടാകാം കാരണം അവർ സ്വന്തം സർക്കിളിനുള്ളിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ എനിക്ക് നേരിട്ട് ബന്ധമുള്ള എല്ലാ ദിവസവും ഞാൻ കണ്ടുമുട്ടുന്ന എന്റെ സുഹൃത്തുക്കളെപ്പോലെ വ്യക്തിബന്ധം മുഖാമുഖം സംസാരിക്കുന്ന യോജിച്ച നെറ്റ്വർക്കുകളുടെ പങ്ക് എന്താണ് അത് നിങ്ങൾക്ക് അവസരവും സാമൂഹിക ബാധ്യതയും നൽകുന്നുവെന്ന് ചിലർ പറയുന്നു പുറത്തുനിന്നോ ടെലിവിഷനിൽ നിന്നോ മാധ്യമങ്ങളിൽ നിന്നോ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഞാൻ ഉടൻ തന്നെ എന്റെ സുഹൃത്തുക്കൾ അയൽക്കാർ ഞാൻ കൂടെയുള്ള സഹപ്രവർത്തകർ തുടങ്ങിയ നേരിട്ടുള്ള നെറ്റ്വർക്ക് പങ്കാളികൾക്ക് വിവരങ്ങൾ കൈമാറുന്നത് ശേഖരിക്കാനും ഇത് നിങ്ങളെ സഹായിക്കുന്നു വളരെ അടുപ്പമുള്ളത് അത് യോജിച്ചതാണ് അതിനാൽ വേഗത്തിലുള്ള വിവരങ്ങൾ നൽകാൻ ഇത് യഥാർത്ഥത്തിൽ സഹായിക്കുന്നു അത് പഠനമായി പ്രവർത്തിക്കുക മാത്രമല്ല വിവരങ്ങൾ വളരെ വേഗത്തിൽ കൈമാറുന്നതിലൂടെ സാമൂഹിക പഠനം മാത്രമല്ല എന്റെ 5 സുഹൃത്തുക്കൾ ആണെങ്കിൽ ഇത് ഒരുതരം ബാധ്യതകളും സമ്മർദ്ദവും സാമൂഹിക സമ്മർദ്ദവും നൽകുന്നു മഴവെള്ള സംഭരണിയോ ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന കെട്ടിടമോ ഉപയോഗിച്ച് അത് എന്റെ ധാർമ്മിക കടമയോ സാമൂഹിക സമ്മർദ്ദമോ ആയിത്തീരുന്നു എനിക്കും അത് വേണമെന്ന് ഞാൻ കരുതുന്നു അല്ലാത്തപക്ഷം എനിക്ക് അവരിൽ അംഗമാകാൻ കഴിയില്ല അവരുടെ ഗ്രൂപ്പിൽ അംഗമാകാൻ കഴിയില്ല ഒറ്റപ്പെടൽ എളുപ്പമല്ലെന്ന് എനിക്ക് തോന്നുന്നു അതിനാൽ വ്യതിചലിക്കുന്ന പെരുമാറ്റം അങ്ങനെ കണക്കാക്കാം അതിനാൽ ഞാൻ അത് പാലിക്കണം ഒരു സാമൂഹികവും യോജിച്ചതുമായ ഒരു ഗ്രൂപ്പിന്റെ കാര്യത്തിൽ സാമൂഹിക ബാധ്യത വളരെ പ്രധാനമാണ് എന്നാൽ ഇത് നിങ്ങൾക്ക് പുതിയ ആശയം ഉൾക്കൊള്ളാൻ കഴിയാത്ത മറ്റൊരു പരിമിതി നൽകുന്നു ഈ വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഒരേ ഗ്രൂപ്പിലാണ് അതിനാൽ നിങ്ങൾക്ക് ഒരേ തരത്തിലുള്ള ഗോസിപ്പുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ഒരേ വിവരങ്ങൾ വരുകയും പോകുകയും ചെയ്യുന്നു നിങ്ങൾക്ക് വളരെ ഇറുകിയ നെറ്റ്വർക്ക് ഉള്ളതിനാലും ഈ നെറ്റ്വർക്ക് അടച്ചിരിക്കുന്നതിനാലും നിങ്ങൾ ഈ നെറ്റ്വർക്ക് തുറക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വിവരങ്ങൾ എങ്ങനെ ലഭിക്കും നിങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെയോ മറ്റ് ഉറവിടങ്ങളിലൂടെയോ ലഭിക്കും പക്ഷേ മനുഷ്യ ശൃംഖല വികസിക്കുന്നില്ല അത് നൽകുന്നു എന്ന് ആരോ പറയുന്നു അനാവശ്യമായ അനാവശ്യ വിവരങ്ങൾ മാത്രം പുതിയ ആശയങ്ങൾ പുതിയ ചിന്തകൾ പുതിയ അറിവുകൾ എന്നിവ കൊണ്ടുവരുന്നത് തടയുന്നു നമ്പർ 2 ഘടനാപരമായ തുല്യതകൾ അല്ലെങ്കിൽ സ്ഥാനവും റോളും എന്താണ് അവർ പരസ്പരം ഇടപഴകാത്ത 2 ആളുകൾ അല്ലെങ്കിൽ അവർ പരസ്പരം അറിയാത്തവരായിരിക്കാം എന്നാൽ അവർ ഒരു ആശുപത്രിയിൽ പോലെ ഒരേ സ്ഥാനത്താണ് 2 ഡോക്ടർമാർ അവർ പരസ്പരം സാധ്യതയില്ല അല്ലെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ അറിയില്ലായിരിക്കാം എന്നാൽ അവർ ഒരേ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ആശുപത്രി വളരെ വലുതാണ് അവർക്ക് ഒരേ റോളും ഒരേ സ്ഥാനവുമുണ്ട് അപ്പോൾ ആളുകൾക്ക് പരോക്ഷമായി നിരീക്ഷിക്കാനും പരസ്പരം താരതമ്യം ചെയ്യാനും അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും കഴിയും നേരിട്ടോ അല്ലെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയും ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ ഐഐടി റൂർക്കിയിലെ ഗവേഷകരാണ് അതിനാൽ അവർ പരസ്പരം അറിയാതെ ഒരുപോലെയാണ് ഐഐടി റൂർക്കിയിലെ സ്ഥാപനം അവർക്ക് ഒരുതരം സാമൂഹികവൽക്കരണമോ പരിശീലനമോ നൽകുന്നു ചില തരത്തിലുള്ള വിവരങ്ങൾ ശരിയാക്കാൻ അതിനാൽ ഇവിടെ പോലെ ഇതൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി നെറ്റ്വർക്ക് മൊത്തത്തിൽ Y ആണെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയും അഞ്ച് അഭിനേതാക്കൾ ഉണ്ട് അതിനാൽ A B പോലെയുള്ള റോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അവർക്ക് പരസ്പരം നേരിട്ട് ബന്ധമില്ല പക്ഷേ അവർ ഒരാളുടേതാണ് ഗ്രൂപ്പ് എന്തുകൊണ്ട് കാരണം A B എന്നിവയ്ക്ക് C D എന്നിവയുമായി പരസ്പര ബന്ധമുണ്ട് A പോലെ തന്നെ A C D എന്നിവയുമായി സമാനമായ ബന്ധമുണ്ട് C D എന്നിവയുമായി Bക്ക് ബന്ധമുണ്ട് ഈ നെറ്റ്വർക്കിലെ മറ്റ് അഭിനേതാക്കളുമായി അവർ ബന്ധപ്പെട്ടിട്ടില്ല സിക്കും ഡിക്കും ഇത് സത്യമാണ് അവർക്ക് പരസ്പരം നേരിട്ട് ബന്ധമില്ല എന്നാൽ ഒരേ ആശുപത്രിയിലെ ഡോക്ടർ ഒരേ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഐഐടി റൂർക്കിയിലെ ഗവേഷകർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ എന്നിങ്ങനെ ഒരു ഗ്രൂപ്പിൽ പെട്ടവരാണ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് 3E അയാൾ ഒരു ഒറ്റപ്പെട്ട വ്യക്തിയാണ് കാരണം ആർക്കും ഇത്തരത്തിലുള്ള നെറ്റ്വർക്ക് ഇല്ല ഓക്കേ ഘടനാപരമായ തുല്യതയുടെ പങ്ക് അത് മത്സരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു 2 സഹപ്രവർത്തകർ അവർ പരസ്പരം മത്സരിക്കുന്നു അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചില സാമൂഹികവൽക്കരണ പ്രക്രിയകൾ നൽകുന്നു ഐഐടി റൂർക്കിയിലെ നിങ്ങളുടെ ഗവേഷകരെ നിങ്ങൾക്ക് അറിയില്ല സാരമില്ല ബയോളജി ഡിപ്പാർട്ട്മെന്റിലെ ആരെങ്കിലും ആരെങ്കിലും എഞ്ചിനീയറിംഗ് വിഭാഗം ആസൂത്രണ വിഭാഗത്തിലെ ഒരാൾ പക്ഷേ നിങ്ങൾക്ക് ഒരുതരം ഓറിയന്റേഷനും ഒരുതരം പരിശീലനവുമുണ്ട് നിങ്ങൾക്ക് പരസ്പരം അറിയില്ലെങ്കിൽ പ്രശ്നമില്ല നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ വളർത്തുന്നു മറ്റൊരു ഡിമെൻഷൻ സ്പേഷ്യൽ ഡിമെൻഷൻ ആണ് സ്പേഷ്യൽ ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരുമായി ഇടപഴകേണ്ടതുണ്ട് അവർ നിങ്ങളെ സ്വാധീനിക്കുന്നു നിങ്ങൾ അവരെയും അങ്ങനെ സ്വാധീനിക്കുന്നു നിങ്ങൾ മുഖാമുഖം ഇടപഴകണം അവരോട് സംസാരിക്കണം അങ്ങനെ അവരെ കണ്ടുകൊണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും എപ്പോഴും സ്വാധീനിക്കുക അവിടെ അതിനാൽ ആളുകൾ ഒരു സാധാരണ സ്ഥലത്ത് പോകാൻ തുടങ്ങി അവർക്ക് സമാനമായ ഒരു ശീലമോ മനോഭാവമോ ഉണ്ട് അതിനാൽ ഇപ്പോൾ നമുക്ക് 3 തരം ഗ്രൂപ്പുകളുണ്ട് ഒന്ന് ഏകീകൃതമാണ് ഒന്ന് ഘടനാപരമായി തുല്യമാണ് ഒരേ മത്സര സ്ഥാനവും റോളുകളും സ്ഥലപരമായ വിതരണത്തിന്റെ ചോദ്യവുമുണ്ട് ഇപ്പോൾ 3 തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് 3 തരത്തിലുള്ള വിവരങ്ങളോ വിവരങ്ങളോ ശേഖരിക്കേണ്ടതുണ്ട് ഒന്ന് കേൾക്കൽ ഒന്ന് നിരീക്ഷണങ്ങൾ ഒന്ന് ചർച്ചകൾ ചോദ്യം ഒരു വ്യക്തി എന്ന നിലയിൽ ഏത് തരത്തിലുള്ള വിവരങ്ങളാണ് ശേഖരിക്കാൻ ഞാൻ എവിടെ നിന്ന് പോകേണ്ടത് ഞാൻ ആരെ ആശ്രയിക്കണം എന്റെ യോജിച്ച പങ്കാളികളോടോ അയൽപക്കങ്ങളിലേക്കോ ഞാൻ നിരീക്ഷിക്കേണ്ട നിരീക്ഷണങ്ങൾക്ക് ആരുടെ പ്രവർത്തനങ്ങൾ ചർച്ചകൾക്കായി ഞാൻ നിരീക്ഷിക്കണം പുതുമകളെക്കുറിച്ചുള്ള കൂടുതൽ ആത്മനിഷ്ഠമായ വ്യാഖ്യാനങ്ങൾ അങ്ങനെ ഞാൻ ആരെയാണ് ആശ്രയിക്കേണ്ടത് ആരെയാണ് ആശ്രയിക്കേണ്ടത് വിവരങ്ങൾ നേടുന്നതിന് നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത് ഇത് ബംഗ്ലാദേശാണ് ഞാൻ പറഞ്ഞത് പോലെ ആഴ്സനിക് പ്രത്യേകിച്ച് തീരപ്രദേശങ്ങൾ ജലത്തിന്റെ ലവണാംശം എന്നിവയാൽ മലിനമായിരിക്കുന്നു ഞങ്ങൾ ഒരു ചെറിയ പ്രദേശം നഗരം സബർബൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സർവേ നടത്തി മോറെൽഗഞ്ച് പട്ടണവും മോറെൽഗഞ്ച് ഗ്രാമങ്ങളും ഈ ചെറുപട്ടണത്തിന്റെ ബസാർ പ്രദേശമാണ് ആളുകൾ വെള്ളം കുളത്തിൽ നിന്നും ചിലപ്പോൾ കുഴൽ കിണറുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നു എന്നാൽ മഴവെള്ളത്തിനായി ആളുകൾ ജപ്പാൻ ആസ്ഥാനമായുള്ള എൻജിഒ അവർ നഗരത്തിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ടാങ്കുകൾ സ്ഥാപിച്ചു അവർ മൊത്തം 56 ടാങ്കുകൾ സ്ഥാപിച്ചു അവർ 250 ലധികം ടാങ്കുകൾ സ്ഥാപിച്ചു ഇപ്പോൾ ഈ പ്രദേശത്തിന്റെ ചില ചിത്രങ്ങളാണ് ഒരു കാഴ്ച ലഭിക്കാൻ ഈ പ്രദേശം എങ്ങനെ കാണപ്പെടുന്നുവെന്ന് ഒരു ആശയം നേടുക ഇത് ഉയർന്ന വേലിയേറ്റ സമയത്താണ് പ്രധാനമായും ഗതാഗതത്തിനായി അവർ കനാൽ ഉപയോഗിക്കുന്നു പല സ്ഥലങ്ങളിലും റോഡുകൾ വിച്ഛേദിക്കപ്പെടുന്നു മഴക്കാലത്താണ് അതിനാൽ ഇത് ശരിക്കും നിങ്ങൾക്ക് പ്രദേശത്തിന്റെ ഒരു നോട്ടം നൽകാനാണ് അതിനാൽ യോജിച്ച നെറ്റ്വർക്കുകൾ ഫാക്ഷൻ രീതികൾ എന്നിവ നിർവചിക്കാൻ ഞങ്ങൾ ചില രീതികൾ ഉപയോഗിക്കുന്നു മറ്റൊന്ന് ബർട്ട് രീതികൾ ഉപയോഗിച്ച് ഘടനാപരമായ തത്തുല്യമായ ഗ്രൂപ്പാണ് UCINET ലെ നിർവചനം കൂടാതെ സ്പേഷ്യൽ ഗ്രൂപ്പ് നെയ്ബർഹുഡ് അഫിലിയേഷനുകളും അതിനാൽ ഈ ചർച്ചകൾക്ക് ഇത് അത്ര പ്രധാനമല്ല പക്ഷേ ഞങ്ങൾക്ക് ആവശ്യമാണ് ആളുകളുടെ സോഷ്യൽ നെറ്റ്വർക്കുകളെക്കുറിച്ചുള്ള സർവേയിലൂടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഞങ്ങൾ ആളുകളോട് ചോദിച്ചു ദയവുചെയ്ത് 3 വ്യക്തികളായി പേര് നൽകുക മോറെൽഗഞ്ച് ഏരിയയിലെ ഈ പ്രദേശത്തെ 3 ടാങ്ക് ഉടമകളെ നിങ്ങൾ പലപ്പോഴും കാണുകയും സംസാരിക്കുകയും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളിലും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു ടാങ്ക് ഉടമകൾക്കുള്ളിൽ നിലനിൽക്കുന്ന സോഷ്യൽ നെറ്റ്വർക്കുകളെക്കുറിച്ചുള്ള ആശയം ഇത് ഞങ്ങൾക്ക് നൽകും അതിനാൽ ഇത് ഘടനാപരമായ തത്തുല്യ ഗ്രൂപ്പാണ് അവർ എവിടെ നിന്നാണ് മഴവെള്ള സംഭരണിയെ കുറിച്ച് ആദ്യമായി ശേഖരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഞങ്ങൾ ആളുകളോട് പറഞ്ഞു ദയവായി നിങ്ങളുടെ കുടിവെള്ള ആവശ്യത്തിനുള്ള മഴവെള്ള സംഭരണിയെ കുറിച്ച് നിങ്ങൾ ആദ്യമായി കേട്ട 3 പേരുടെ പേര് ഞങ്ങളെ അറിയിക്കുക അതിനാൽ നിങ്ങൾ എങ്കിൽ അപ്പോൾ ഞങ്ങൾ ഇത് സൃഷ്ടിക്കുന്നു ഇതിന്റെ ഒരു ഉദാഹരണം ഇതാ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സർക്കിളുകൾ ഇതാണ് ഈ റെഡ് സർക്കിളുകൾ എൻജിഒ പങ്കാളികളാണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിറ്റി ബൌണ്ടറി ഓക്കേ കമ്മ്യൂണിറ്റി ബൌണ്ടറി ആണ് അതിനാൽ ഇവിടെയുള്ള ആളുകൾ ചുവപ്പ് യഥാർത്ഥത്തിൽ അവർ കേന്ദ്ര വ്യക്തിയാണ് അവരിൽ നിന്ന് ധാരാളം ആളുകൾ വിവരങ്ങൾ ശേഖരിക്കുന്നു അവർ യഥാർത്ഥത്തിൽ ഈ മഴവെള്ള സംഭരണ ടാങ്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന എൻജിഒക്കാരാണ് കൂടാതെ ചില പുറത്തുനിന്നുള്ളവരും നിങ്ങൾക്ക് പുറത്ത് നിന്നുള്ള ചിലരെ കാണാം ഈ മൊറൽഗഞ്ച് ഏരിയയിൽ പെട്ടതല്ല അവരിൽ നിന്നും ഞങ്ങൾ വിവരങ്ങൾ ശേഖരിക്കും എന്നാൽ കമ്മ്യൂണിറ്റിക്കുള്ളിൽ ചില പ്രധാന കളിക്കാർ ശരിയാണ് മഴവെള്ള സംഭരണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ അവർ നിർണായക പങ്ക് വഹിച്ചു കൂടാതെ നിരീക്ഷണങ്ങളും നിരീക്ഷണ ശൃംഖലയ്ക്കായി നിങ്ങൾ ആദ്യമായി ഈ മഴവെള്ള സംഭരണി കണ്ട ആദ്യത്തെ മൂന്ന് വ്യക്തികൾ ആരാണെന്ന് ഞങ്ങൾ ആളുകളോട് ചോദിക്കുന്നു അതിനാൽ ഇവിടെയും അടിസ്ഥാനപരമായി പുറത്തുനിന്നുള്ളവരോ എൻജിഒക്കാരോ നിസ്സാരരാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അവർ അത് ചെയ്തില്ല അതിനാൽ അത് യഥാർത്ഥത്തിൽ അവിടെയുണ്ട് ആളുകളുടെ ഉള്ളിൽ അവരാണ് കമ്മ്യൂണിറ്റി അതിരുകൾക്കുള്ളിലെ വിവരങ്ങളുടെ പ്രധാന ഉറവിടം ഒരു ചെറിയ സ്വാധീനം ഇനി ചർച്ചകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് അവർ ആരുമായി ചർച്ച ചെയ്തു ഞങ്ങൾ അവരോട് 3 പേരുടെ പേര് നൽകാൻ ആവശ്യപ്പെട്ടു കൂടാതെ അവർ പുറത്തുനിന്നുള്ളവരെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും അകത്തുള്ളവരെ ശരിയാണെന്നും ഞങ്ങൾ കണ്ടെത്തി ഇവിടെ നിങ്ങൾക്ക് ധാരാളം നെറ്റ്വർക്കുകൾ കാണാൻ കഴിയും അവിടെ ധാരാളം അതിനാൽ ഇപ്പോൾ നോക്കൂ ഞങ്ങൾ ഒരു റിഗ്രഷൻ അനാലിസിസ് നടത്തി ഞങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഹിയറിങ് ഒബ്സെർവഷൻസ് ഡിസ്കഷന്സ് എന്നിവ ശരിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയണം ആളുകൾ എവിടെ നിന്നാണ് ശേഖരിക്കുന്നത് ഒന്ന് മതം പോലുള്ള സാംസ്കാരിക ഗ്രൂപ്പാണെന്ന് അവർ ചോദിച്ചാൽ മതം സാമ്പത്തികം സ്ഥലപരം സാമൂഹികം എന്നിവയിൽ നിന്ന് ശരിയാണ് നമ്മൾ കേൾക്കുന്നത് കണ്ടാൽ ആളുകൾ അവരുടെ കൂട്ടായ ഗ്രൂപ്പ് പങ്കാളികളെ ആശ്രയിച്ചിരിക്കുന്നു അതായത് അവരുടെ സുഹൃത്തുക്കളെയാണ് അർത്ഥമാക്കുന്നത് ഇപ്പോൾ അൽപ്പം അവരുടെ അയൽക്കാരനിലേക്ക് വ്യാപിക്കുന്നു മറ്റൊന്നും പ്രാധാന്യമർഹിക്കുന്നില്ല അവർ ആദ്യമായി നിരീക്ഷിച്ച നിരീക്ഷണങ്ങളുടെ കാര്യത്തിൽ അയൽപക്ക പങ്കാളികൾ ഒരു വലിയ പങ്ക് വഹിച്ചു അതിനർത്ഥം അവർ അവരുടെ അയൽപക്കത്ത് നിരീക്ഷിക്കുകയും അതുപോലെയുള്ള കൂട്ടായ കൂട്ടായ പങ്കാളികളും അയൽക്കാരിൽ ചിലർ അവിടെയുണ്ട് യോജിച്ച ഗ്രൂപ്പ് പങ്കാളികൾ ചർച്ചയുടെ കാര്യത്തിൽ അതാണ് അന്തിമ തീരുമാനങ്ങൾ അവർ വീണ്ടും യോജിച്ച ഗ്രൂപ്പ് പങ്കാളികളെ ആശ്രയിക്കുന്നു ശരി കൂടാതെ അവരുടെ അയൽപക്കങ്ങൾ അതിനാൽ യോജിച്ച ഗ്രൂപ്പ് പങ്കാളികളും അയൽക്കാരുമാണ് വിവരങ്ങളുടെ പ്രധാന ഉറവിടം അതിനാൽ ബന്ധങ്ങളുടെയും നെറ്റ്വർക്കിന്റെയും ഡിഗ്രിയും ഫ്രീക്കവൻസിയും ഉയർന്നതാണ് വിവരങ്ങൾ പങ്കിടുന്ന പ്രവണതയും അയൽപക്ക അംഗങ്ങളും അല്ലെങ്കിൽ മിക്ക ആളുകളുടെയും നിരീക്ഷണങ്ങളുടെ സ്പേഷ്യൽ ഗ്രൂപ്പ് ഉറവിടവും ഉയർന്നതാണ് പിന്നെ ഇതിന്റെ നയപരമായ അർത്ഥമെന്താണ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ ടാങ്ക് ഉടമകളുടെ ഉപയോക്താക്കളിൽ തൃപ്തരായവർക്ക് വന്ന് സംസാരിക്കാം സംസാരിക്കാം എന്ന് പ്ലാനർമാർക്കും എൻജിഒ പ്രവർത്തകർക്കും ഇത് പ്രയോജനപ്പെടുത്താം ഇതുവരെ അഡോപ്റ്റ് ചെയ്യാത്ത വ്യക്തികൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേക അയൽപക്കത്ത് അയൽപക്ക മീറ്റിംഗുകളോ വർക്ക് ഷോപ്പുകളോ നടത്തുന്നതിലൂടെ വിജയഗാഥകൾ ടാങ്ക് അഡോപ്റ് ചെയ്യുന്നവർ എന്നിവയെക്കുറിച്ചുള്ള അവരുടെ വ്യക്തിപരമായ അഭിപ്രായം ആരെങ്കിലും സ്വീകരിച്ചു അത് രേഖപ്പെടുത്തുകയും അഡോപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളവർക്ക് ഒരു ബ്രോഷറിൽ വിതരണം ചെയ്യുകയും അഡോപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളവരെ ഏകീകൃത ഗ്രൂപ്പ് പങ്കാളികൾ ബാധിക്കുകയും ചെയ്യുന്നു അതിനാൽ മത രാഷ്ട്രീയ സാംസ്കാരിക ഗ്രൂപ്പുകൾ പോലെ ഇവ യഥാർത്ഥത്തിൽ യോജിച്ച ഗ്രൂപ്പുകളാണ് അതിനാൽ നമുക്ക് ഈ ഗ്രൂപ്പുകളെ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കാം സാധ്യതയുള്ള ടാങ്ക് അഡോപ്റ്റ് ചെയ്യുന്നവരെ ബോധ്യപ്പെടുത്താനുള്ള മറ്റൊരു തന്ത്രം ടാങ്ക് അഡോപ്റ്റ് ചെയ്യുന്നവരെ അവരുടെ അനുഭവം മറ്റ് 3 അംഗങ്ങളുമായി പങ്കിടാൻ സംതൃപ്തരായിരിക്കും അവർക്ക് 3 അല്ലെങ്കിൽ 4 അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെന്നും അവർക്ക് ഞങ്ങളോട് പറയാൻ കഴിയും അതിനാൽ ഇവയിൽ ചിലത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വീടുതോറുമുള്ള പ്രചാരണം നടത്താം ഈ പ്രസംഗം ശ്രവിച്ച എല്ലാവർക്കും വളരെ നന്ദി ദുരന്ത നിവാരണവും വിവരങ്ങൾ പങ്കിടലും പ്രോത്സാഹിപ്പിക്കുന്നതിൽ പയനിയർ അഡോപ്റ്റേഴ്സിന്റെ പങ്കിലും ഞാൻ തുടരും